അവശേഷിക്കുന്ന അവസാന പദം വലതുവശത്തുള്ള ഈ പദമാണ് അതിനാൽ ഡെൽറ്റ ഫംഗ്ഷനും നമ്മുടെ ഇന്റഗ്രലും സംയോജിപ്പിക്കുന്നത് എന്റെ Sε അപ്പോൾ നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് വിദ്യാർത്ഥി 1 1 അതിനാൽ ഈ പദം എനിക്ക് 1 നൽകണം അതിനാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ചെറിയ കാര്യമുണ്ട് ഞാൻ ഇത് എഴുതിയ രീതി 1 D ഡെൽറ്റ ഫംഗ്ഷൻ ശരിയാണെന്ന് തോന്നുന്നുവെങ്കിൽ അതിനാൽ നിങ്ങൾ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഇനിപ്പറയുന്നവ അറിയാമായിരുന്നെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു തെറ്റ് സംഭവിക്കാം ഉദാഹരണത്തിന് നിങ്ങൾ ഈ dS rdrdθ ആയി എഴുതുകയും നിങ്ങൾ ഇത് δ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ എഴുതാം 2π∫rδdr 2π അതിനാൽ അത് ശരിയായി ചെയ്യരുത് അതിനാൽ ശരിയായ രീതിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിനാൽ ഇത് തെറ്റാണ് അതിനാൽ ഇത് ചെയ്യാനുള്ള ശരിയായ മാർഗം ഇത് ഒരു ദ്വിമാന ഡെൽറ്റ ഫംഗ്ഷനായി കരുതുക എന്നതാണ് അതിനാൽ ∫∫δxydxdy 1 അതിനാൽ 2 D ഡെൽറ്റ ഫംഗ്ഷൻ ചെയ്യുന്നു അതിനാൽ അതിന്റെ ഇന്റഗ്രൽ 1 ന് തുല്യമായിരിക്കും അതിനാൽ ആ പദം c 1 ന് തുല്യമാണ് അതിനാൽ ഒടുവിൽ ഇവിടെ ബാക്കിവെച്ചതെല്ലാം ആദ്യ ടേം നമുക്ക് നൽകി വിദ്യാർത്ഥി 4 4jb അത് നമുക്ക് 4jb നൽകി രണ്ടാം ടേം നമുക്ക് നൽകി വിദ്യാർത്ഥി 0 0 ഒടുവിൽ ഇവിടെ എനിക്കുണ്ട് 1 അവസാനമായി ഞാൻ ഇത് മൊത്തത്തിൽ ചേർത്താൽ എനിക്ക് എന്റെ ഗ്രീൻ ഫംഗ്ഷൻ − j4H0 തുല്യമായി എഴുതാം അപ്പോൾ ഞാൻ ഇവിടെ എന്താണ് ആരംഭിച്ചത് ഞാൻ രണ്ട് ടേം ഉപയോഗിച്ചാണ് ആരംഭിച്ചത് എനിക്ക് രണ്ടാമത്തെ ടേം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അതിനാൽ H0 അതിനാൽ ആശയക്കുഴപ്പത്തിലാകാൻ എളുപ്പമുള്ള മറ്റൊരു കാര്യം കാരണം നമ്മൾ നൊട്ടേഷനിൽ അൽപ്പം ശ്രദ്ധാലുവായിരുന്നില്ല ഞാൻ ഇവിടെ r എന്ന് ലളിതമായി എഴുതിയിട്ടുണ്ട് ഡിഫറൻഷ്യൽ സമവാക്യത്തിൽ ഇത് എവിടെ നിന്നാണ് വന്നതെന്ന് ഈ r തിരിച്ചറിയാൻ അനുവദിക്കുന്നു അതിനാൽ ഈ തരംഗ സമവാക്യത്തെ ബെസൽ ഡിഫറൻഷ്യൽ സമവാക്യം ഉപയോഗിച്ച് തിരിച്ചറിയുന്നതിൽ നിന്നാണ് ഈ r വന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ r എന്താണ് ഇത് ഒരു സ്കെയിലറാണ് കാരണം ഇത് ഇവിടെയുള്ള x മായി പൊരുത്തപ്പെടുന്നു ഒന്ന് മുതൽ ഒന്ന് വരെ മാപ്പിംഗ് ഉണ്ട് അതാണ് ഞാൻ എല്ലായിടത്തും ശരിയായി പരിപാലിക്കുന്നത് അങ്ങനെ ഒടുവിൽ ഗ്രീൻ ഫംഗ്ഷൻ ഓവർ ഇവിടെ G എന്ന പദപ്രയോഗത്തിലേക്ക് വരുമ്പോൾ ഈ r ന്റെ അർത്ഥമെന്താണ് ഇത് ഒരു സ്കെയിലർ ആണ് എന്താണ് ഞാൻ പോളാർ കോർഡിനേറ്റിലാണ് അതിനാൽ ഈ മൂല്യം എല്ലായ്പ്പോഴും പോസിറ്റീവ് ആണ് കാരണം ഇത് ദൂരം റേഡിയൽ ദൂരം ആണ് അതിനാൽ Gr→ r എവിടെയും ആയിരിക്കാവുന്നിടത്ത് ഇത് കൂടുതൽ കൃത്യമായി എഴുതണമെങ്കിൽ ഞാൻ ഇത് എങ്ങനെ പരിഷ്കരിക്കണം വിദ്യാർത്ഥി r→ അല്ലെങ്കിൽ |r→| അതിനാൽ H0k|r→| ഇത് ഒരു ചെറിയ കാര്യമാണ് നിങ്ങൾ വ്യുൽപ്പന്നം വീണ്ടും കണ്ടെത്തുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് |r→| ഇവിടെ സൂക്ഷിക്കണം H0 എന്നതിന് പകരം ഏത് വാചകമാണ് നിങ്ങൾ നോക്കുന്നത് എന്നതിനെ ആശ്രയിച്ച് നിങ്ങൾക്ക് H0 കണ്ടെത്താം അതിനുള്ള കാരണം അതെ പ്രകാരം j ആയിരിക്കും പക്ഷേ നിങ്ങൾ എന്തിനാണ് തിരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ടാണ് ആരെങ്കിലും ഗ്രീൻ ഫംഗ്ഷൻ H0 എന്ന് എഴുതുന്നത് വിദ്യാർത്ഥി ഇത് വിപരീതമാണ് വിപരീതം ഭൌതികമായി അനുവദനീയമല്ല വിപരീത തരംഗങ്ങൾ ഭൌതികമായി അനുവദനീയമല്ല പക്ഷേ ഇപ്പോഴും ചില സ്ഥലങ്ങൾ നിങ്ങൾ കണ്ടെത്തും ചില ടെക്സ്റ്റ് ബുക്കുകളിൽ ഗ്രീൻ ഫംഗ്ഷൻ ചില സ്ഥിരമായ സമയങ്ങളിൽ H0 എന്ന് എഴുതിയിരിക്കുന്നത് കാണാം എന്താണ് എന്തുകൊണ്ട് അത് ശരിയാകും എന്തുകൊണ്ട് ഇതും ശരിയാകും അതിനാൽ ബെസൽ ഡിഫറൻഷ്യൽ സമവാക്യത്തിന് നമ്മൾ പരിഹാരം എഴുതിയപ്പോൾ എനിക്ക് H0 H0 എന്നീ രണ്ട് പദങ്ങൾ ലഭിച്ചുവെന്ന് ഓർക്കുക ഞാൻ എങ്ങനെ H0 തിരഞ്ഞെടുക്കും വിദ്യാർത്ഥി പുറത്തേക്ക് ഞാൻ പുറത്തേക്ക് തിരിയാൻ വരുന്നതിനുമുമ്പ് ഞാൻ ഓർക്കേണ്ടതെന്താണ് സമയ കൺവെൻഷൻ അതിനാൽ ഞാൻ ejωt തിരഞ്ഞെടുത്തു H0 ഒരു ഔട്ട്ഗോയിംഗ് തരംഗമായിരുന്നു എന്നാൽ എന്റെ സമയ കൺവെൻഷൻ e−jωt ആണെങ്കിൽ വിദ്യാർത്ഥി H0 അപ്പോൾ അത് H0 ആയിരിക്കും കാരണം H0 അപ്പോൾ തരംഗം പുറത്തേക്ക് പോകേണ്ട ഔട്ട്ഗോയിംഗ് തരംഗമാണ് അതിനാൽ ഏതാണ് വീണ്ടും തിരഞ്ഞെടുക്കേണ്ടതെന്ന് നിങ്ങളുടെ സമയ കൺവെൻഷനിൽ നിങ്ങൾ കാണേണ്ടതുണ്ട് അതിനാൽ ഇത് ഫിസിക്സ് ടെക്സ്റ്റും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ടെക്സ്റ്റും തമ്മിലുള്ള പൊതുവായ വ്യത്യാസമാണ് ഫിസിക്സ് ആളുകൾ e−jωt ഉപയോഗിക്കുന്നു ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാർ ejωt തിരഞ്ഞെടുക്കാൻ പ്രവണത കാണിക്കുന്നു അതിനാൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലാത്തപക്ഷം മൈനസ് ചിഹ്നത്താൽ നിങ്ങൾ എല്ലായിടത്തും ഓഫാകും കമ്പ്യൂട്ടേഷണൽ ഇലക്ട്രോമാഗ്നറ്റിക്സിന്റെ കാര്യത്തിൽ രണ്ട് തരത്തിലുള്ള രചയിതാക്കളുടെയും ഒരു മിശ്രിതമുണ്ട് അതിനാൽ നിങ്ങൾ ഒരു മിശ്രണത്തിന്റെ യഥാർത്ഥ സാധ്യതയാണ് ശരി അതിനാൽ നമ്മൾ എല്ലായിടത്തും ejωt എന്ന കൺവെൻഷനിൽ ഉറച്ചുനിൽക്കാൻ പോകുന്നു അതുകൊണ്ടാണ് നമുക്ക് H0 ലഭിക്കുന്നത് ഇപ്പോൾ നമ്മുടെ എല്ലാ ഗണിതവും ലഘൂകരിക്കാൻ നമ്മൾ ചെയ്തത് ഡെൽറ്റ ഫംഗ്ഷനെ ഉത്ഭവസ്ഥാനത്താക്കി എന്നതാണ് അങ്ങനെയാണ് നമുക്ക് ഈ ലളിതമായ ഡിഫറൻഷ്യൽ സമവാക്യം ലഭിച്ചത് ഇനി നമുക്ക് പൊതുവായി പറയാം അതിനാൽ ഏതെങ്കിലും r′ ലൊക്കേഷനിൽ എന്റെ ഡെൽറ്റ ഫംഗ്ഷൻ ഉള്ള കാര്യം നമുക്ക് പരിഗണിക്കാം ഇപ്പോൾ എന്റെ പരിഹാരം എങ്ങനെ തിരികെ ലഭിക്കും നമ്മൾ എന്തുചെയ്യുമെന്ന് നമ്മൾ സമ്മതിച്ചുവെന്ന് ഞാൻ ഓർക്കണം ഒരിക്കൽ എനിക്ക് പരിഹാരം ലഭിച്ചുകഴിഞ്ഞാൽ ഞാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം വിദ്യാർത്ഥി ഉത്ഭവം മാറ്റുക ഉത്ഭവം മാറ്റുക അതിനാൽ ഞാൻ എഴുതേണ്ട അവസാന രൂപം എന്തായിരിക്കും − j4H0k|r − r′| കാരണം ഇത് പരോക്ഷമായി r′ ഉത്ഭവം ഉണ്ടാക്കുകയും അതിൽ നിന്ന് r ന്റെ ദൂരം കണ്ടെത്തുകയും ചെയ്യുന്നു r′ അതിനാൽ ഇത് ഭൌതികമായി വാദിക്കുന്നത് നമുക്ക് വളരെയധികം ലളിതമാക്കാൻ അനുവദിക്കുന്നു പകരം ഒരു ഡെൽറ്റ ഫംഗ്ഷന്റെ നിങ്ങളുടെ സ്ഥാനം ഉത്ഭവം ആകാതിരിക്കാനും എല്ലാം പരിഹരിക്കാൻ നിർബന്ധിതരാകാനും നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾ തീറ്റയെ ആശ്രയിക്കുന്ന നിബന്ധനകൾ ശരിയായി സൂക്ഷിക്കേണ്ടതുണ്ട് കാരണം ഉദാഹരണത്തിന് ഈ കോർഡിനേറ്റ് അച്ചുതണ്ടിൽ എന്റെ ഡെൽറ്റ ഫംഗ്ഷൻ ഇവിടെയും എന്റെ നിരീക്ഷകൻ ഇവിടെ θ r എന്നിവയിലുമാണെങ്കിൽ വ്യക്തമായും ഈ ഉറവിടം പുറപ്പെടുവിക്കുന്ന രീതി ഇവിടെയുള്ള ഈ വ്യക്തിക്ക് തീറ്റ ആശ്രിതത്വമാണ് അതിനാൽ എനിക്ക് കഴിയില്ല θ ആശ്രിത പദങ്ങൾ നീക്കം ചെയ്യാൻ എനിക്ക് കഴിയുമായിരുന്നില്ല പക്ഷേ അവസാനമായി പ്രധാനമായത് ഈ ദൂരം മാത്രമാണ് പ്രധാനം ഉറവിടവും നിരീക്ഷകനും തമ്മിലുള്ള ദൂരം അതിനാൽ നമ്മൾ ഉപയോഗിക്കുന്ന 2D ഗ്രീൻ ഫംഗ്ഷന്റെ രൂപമാണിത് ബെസൽ ഫംഗ്ഷനുകൾ അടങ്ങുന്ന ഹങ്കെൽ ഫംഗ്ഷൻ ഇതൊരു പ്രത്യേക ഫംഗ്ഷനാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു പ്രധാന ആശയം ഈ ഫംഗ്ഷനുകളല്ല നിങ്ങൾക്ക് അവ അടച്ച രൂപത്തിൽ എഴുതാൻ കഴിയില്ല എന്നാൽ അതിനർത്ഥം അത് എങ്ങനെ കാണപ്പെടുന്നുവെന്ന് നമുക്ക് സംഖ്യാപരമായി കാണാൻ കഴിയില്ലെന്ന് അർത്ഥമാക്കുന്നില്ലേ അതിനാൽ ഈ ഫംഗ്ഷൻ യഥാർത്ഥത്തിൽ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം അതാണ് നമുക്ക് ഇവിടെയുള്ളത് അതിനാൽ ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിക്കുന്നത് നിങ്ങളുടെ J0 ഞാൻ അത് ഒരു പ്രതലത്തിൽ വരച്ചതാണ് ഇത് നിങ്ങളുടെ Y0 ഉദാഹരണത്തിന് ഇത് നിങ്ങളുടെ x അക്ഷമാണ് ഇതാണ് നിങ്ങളുടെ y അക്ഷം അതിനാൽ ഞാൻ എന്താണ് ചെയ്യുന്നത് ഞാൻ x ഉം y ഉം സ്ക്വയർ ചെയ്യുന്നു x y എന്നിവയുടെ ഓരോ മൂല്യത്തിലും ഞാൻ ഈ ഫംഗ്ഷൻ ശരിയാക്കുന്നു ഇത് ഒരു യഥാർത്ഥ മൂല്യമാണ് J0 എന്നത് യഥാർത്ഥ മൂല്യമുള്ള ഫംഗ്ഷനാണ് ഇതിന് എല്ലായിടത്തും ഒരു മൂല്യം പരിമിത മൂല്യമുണ്ട് അതിനാൽ ഈ ഫംഗ്ഷന്റെ പരമാവധി എവിടെയാണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും വിദ്യാർത്ഥി ഉത്ഭവം ഉത്ഭവം അതിന് മഞ്ഞ നിറമാണ് നിങ്ങൾ വേവ് പോലെ അതിൽ നിന്ന് അകന്നുപോകുമ്പോൾ അത് ജീർണിക്കാൻ തുടങ്ങും Y0 നുള്ള വ്യത്യാസം എന്താണ് ഇത് ശ്രദ്ധിക്കുക അത് −∞ ലേക്ക് കുതിക്കുന്നു വിദ്യാർത്ഥി 0 മണിക്ക് ഉത്ഭവ 0 ൽ വീണ്ടും അത് വേവ് പോലെയാണ് പക്ഷേ ഞാൻ അതിൽ നിന്ന് അകന്നുപോകുമ്പോൾ അത് ദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് MATLAB ൽ ഇത് ജനറേറ്റുചെയ്യുന്നത് വളരെ ലളിതമാണ് അതിനാൽ X Y പോയിന്റുകളുടെ ഒരു ഗ്രിഡ് സൃഷ്ടിക്കാൻ നിങ്ങൾ മെഷ്ഗ്രിഡ് എന്ന കമാൻഡ് ഉപയോഗിക്കുന്നു നിങ്ങൾ റേഡിയൽ ദൂരം വിലയിരുത്തുന്നു ഇത് മൂലകങ്ങളുടെ തിരിച്ചുള്ള പ്രവർത്തനമാണ് നിങ്ങളുടെ ബെസൽ ജെ കണ്ടെത്തൂ അതിനാൽ അവർക്ക് ബെസൽ ഉണ്ട് J ബെസൽ Y എന്നിവയും മറ്റും അങ്ങനെയാണ് നിങ്ങൾ ഈ വ്യത്യസ്ത കാര്യങ്ങൾ സൃഷ്ടിക്കുന്നത് ഈ 3 D ഫംഗ്ഷൻ പ്ലോട്ട് ചെയ്യാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന ഉപരിതല പ്ലോട്ടാണ് ഇപ്പോൾ ജിജ്ഞാസ കാരണം നിങ്ങൾ യഥാർത്ഥ ജീവിതത്തിൽ ഇതുപോലൊന്ന് കണ്ടിട്ടുണ്ടോ വിദ്യാർത്ഥി റിപ്പിൾസ് റിപ്പിൾസ് നിങ്ങൾ കുളിക്കുമ്പോൾ നിങ്ങളുടെ ബക്കറ്റിൽ വെള്ളം ഒഴിക്കുമ്പോൾ ജലത്തിന്റെ വലതുഭാഗത്ത് ഇതുപോലെയുള്ള റിപ്പിൾസ് കാണാം യഥാർത്ഥത്തിൽ നിങ്ങൾ ജലത്തിന്റെ ഉപരിതലത്തിനായുള്ള ഡിഫറൻഷ്യൽ സമവാക്യം നോക്കുകയാണെങ്കിൽ അത് ഒരേ ബെസൽ ഡിഫറൻഷ്യൽ സമവാക്യമായി മാറുന്നു അതിനാൽ പരിഹാരം ബെസൽ ഫംഗ്ഷനാണ് ഉപരിതലത്തിലെ വെള്ളത്തിനായി നിങ്ങൾക്ക് J0 നും Y0 നും ഇടയിൽ തിരഞ്ഞെടുക്കേണ്ടി വന്നാൽ നിങ്ങൾ എന്ത് തിരഞ്ഞെടുക്കും വിദ്യാർത്ഥി J0 J0 കാരണം ഭൌതികമായി Y0 −∞ പോകുന്നതിൽ അർത്ഥമില്ല അതിനാൽ ഇന്ന് മുതൽ നിങ്ങൾ കുളിക്കുമ്പോഴെല്ലാം ബെസൽ ഫംഗ്ഷനുകൾ നിങ്ങൾ ഓർക്കും കാരണം അവ പ്രകൃതിയിൽ എല്ലായിടത്തും 2 ഡി തരം തരംഗ പ്രശ്നമുള്ളിടത്തുണ്ട് അതിനാൽ 2 ഡി വേവ് ഒരു ബെസൽ ഫംഗ്ഷനാണ് അതിനാൽ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ പ്ലെയിൻ വേവ് എന്ന് ആരെങ്കിലും പറഞ്ഞപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു ejkx−ωt പക്ഷേ ഇതിന്റെ വ്യാപ്തി ഞാൻ പ്ലോട്ട് ചെയ്താൽ ഇതിന്റെ വ്യാപ്തി മാറ്റമില്ലാതെ തുടരുന്നു അത് അനന്തതയിലേക്ക് പോകുന്ന തരംഗമാണ് അത് ഒരിക്കലും ക്ഷയിക്കില്ല അതിനാൽ ഇത് ഏറ്റവും ലളിതമായ തരംഗമാണെങ്കിലും ഇത് ഏറ്റവും ഭൌതികമല്ലാത്ത തരംഗമാണ് മറുവശത്ത് ഇവ 2 ഡി തരംഗങ്ങളാണ് നിങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് വളരെ അകലെ പോകുമ്പോൾ അവ ക്ഷയിക്കാൻ തുടങ്ങുന്നതായി നിങ്ങൾക്ക് ഭൌതികമായി കാണാൻ കഴിയും ഇതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് തുടർന്ന് നമ്മൾ 3 D തരംഗങ്ങളിലേക്കും വരും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിലും എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഒരു ഭൌതിക ധാരണ ലഭിച്ചു നമ്മുടെ ഡിഫറൻഷ്യൽ സമവാക്യം തൃപ്തിപ്പെടുത്തുന്ന തരംഗങ്ങൾ J നോട്ട് Y നോട്ട് എന്നിവയുടെ ഒരു രേഖീയ സംയോജനമാണ് എന്തുകൊണ്ടാണ് നമ്മൾ ആ രേഖീയ സംയോജനം തിരഞ്ഞെടുത്തത് കാരണം അത് നമുക്ക് പുറത്തേക്ക് പോകുന്ന തരംഗങ്ങൾക്ക് ഒരു നിശ്ചിത ഭൌതിക അർത്ഥം നൽകി അങ്ങനെയാണ് നമുക്ക് ഉണ്ടായിരുന്നത്